ഇംപ്ലിമെന്റേഷൻ ഓഫ് കെ മീൻസ് അൽഗോരിതം ഇൻ R എന്ന ഈ ലെക്ച്ചറിലേക്ക് സ്വാഗതം മുൻ ലെക്ച്ചറുകളിൽ പ്രൊഫസർ രഘു ഈ കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തെക്കുറിച്ചും ഈ കെ മീൻസ് അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഗണിത വിശദാംശങ്ങളെക്കുറിച്ചും ഒരു ഹ്രസ്വ ആമുഖം നൽകിയിരുന്നു ഈ ലെക്ച്ചറിൽ R ൽ K മീൻസ് അൽഗോരിതം എങ്ങനെ നടപ്പിലാക്കാം എന്ന് വിശദീകരിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കേസ് പഠനത്തിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കേസ് സ്റ്റഡിയുടെ പ്രോബ്ലം സ്റ്റേറ്റ് മെന്റിൽനിന്ന് നിന്ന് തുടങ്ങാം തുടർന്ന് ആർ ഉപയോഗിച്ച് കേസ് പഠനം എങ്ങനെ പരിഹരിക്കാം എന്ന നോക്കാം പരിഹാര രീതിശാസ്ത്രത്തിന്റെ ഭാഗമായി ഒരു csv ഫയലിൽ നിന്ന് ഡാറ്റ എങ്ങനെ വായിക്കാം എങ്ങനെ നിങ്ങളുടെ R ന്റെ വർക്ക്സ്പെയ്സിലെ ഇതിനകം വായിച്ച എങ്ങനെ ഡാറ്റ മനസ്സിലാക്കാം ഈ കെ മീൻസ് ഫംഗ്ഷനെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ കെ മീൻസ് ഫംഗ്ഷൻ നൽകുന്ന റിസൾട്ട് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും ആദ്യം നമുക്ക് കേസ് സ്റ്റഡി നോക്കാം യാത്രകളുടെ ക്ലസ്റ്ററിംഗായി ഞങ്ങൾക്ക് ഈ കേസ് പഠനം ഉണ്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അതിന്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമാകും കേസ് സ്റ്റഡിയുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ഒരു Uber ക്യാബ് ഡ്രൈവർ ഒരാഴ്ചയ്ക്കുള്ളിൽ 91 ട്രിപ്പുകളിൽ പങ്കെടുത്തു യാത്രയുടെ ദൈർഘ്യം പരമാവധി വേഗത ഏറ്റവും കൂടുതൽ വേഗത യാത്രാ ദൈർഘ്യം ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയം നിഷ്ക്രിയ സമയം ഹോൺ എത്ര തവണ മുഴക്കി എന്നിങ്ങനെ ഓരോ യാത്രയ്ക്കും ഈപ്പറഞ്ഞ പാരാമീറ്ററുകൾ തുടർച്ചയായി നിരീക്ഷിക്കുന്ന ഒരു സൌകര്യം അദ്ദേഹത്തിന് കാറിലുണ്ട് ചില ബിസിനസ് പ്ലാനിനായി യാത്രകൾക്കിടയിൽ ശേഖരിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ യാത്രകളെ നിശ്ചിത എണ്ണം വിഭാഗങ്ങളായി തരംതിരിക്കാൻ Uber ആഗ്രഹിക്കുന്നു ഈ ജോലി നിർവഹിക്കുന്നതിന് അവർ ഡാറ്റാ സയന്റിസ്റ്റായ മിസ്റ്റർ സാമുമായി കൂടിയാലോചിക്കുകയും യാത്രകളുടെ വിശദാംശങ്ങൾ csv ഫോർമാറ്റ് ഫയലിൽ ട്രിപ്പ് trip details dot csv എന്ന പേരിൽ അവനുമായി പങ്കിടുകയും ചെയ്യുന്നു ഇതൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് R ഉപയോഗിച്ച് ഈ കേസ് സ്റ്റഡി എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം അതിനാൽ ഈ കേസ് സ്റ്റേസി പരിഹരിക്കുന്നതിന് ആദ്യം നമ്മുടെ R സ്റ്റുഡിയോ വർക്ക് സ്പേസ് സജ്ജീകരിക്കേണ്ടതുണ്ട് ഞങ്ങൾ നിങ്ങളുമായി പങ്കിട്ട ഫയൽ വർക്കിംഗ് ഡയറക്ടറിയിലേക്ക് പകർത്തുകയും വർക്ക്സ്പെയ്സിലെ വേരിയബിളുകൾ ക്ലിയർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് സെറ്റ് വർക്കിംഗ് ഡയറക്ടറി കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്കിംഗ് ഡയറക്ടറി സജ്ജീകരിക്കാനും സെറ്റ് വർക്കിംഗ് ഡയറക്ടറി ഫംഗ്ഷനിലേക്ക് ഒരു ആർഗ്യുമെന്റായി ഈ ഡാറ്റ ഫയൽ അടങ്ങുന്ന ഡയറക്ടറിയുടെ പാത്ത് നിങ്ങൾക്ക് കൈമാറാനും കഴിയും അല്ലെങ്കിൽ വർക്കിംഗ് ഡയറക്ടറി സജ്ജീകരിക്കുന്നതിന് R മൊഡ്യൂളിൽ നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് GUI ഉപയോഗിക്കാം ഇവിടെയുള്ള ഈ കമാൻഡ് വർക്ക്സ്പേസിൽ ഉള്ള എല്ലാ വേരിയബിളുകളും നീക്കം ചെയ്യുകയും R എൻവയോൺമെന്റ് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു പരിസ്ഥിതിയിൽ നിന്ന് എല്ലാ വേരിയബിളുകളും ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രഷ് ബട്ടൺ നന്നായി ഉപയോഗിക്കാം തന്നിരിക്കുന്ന ഫയലിൽ നിന്നുള്ള ഡാറ്റ വായിക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഈ കേസ് സ്റ്റഡിക്കുള്ള ഡാറ്റtrip details dot csv എന്ന പേരിൽ ഒരു ഫയലിൽ നൽകിയിരിക്കുന്നു ഈ ഫയലിന്റെ വിപുലീകരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് csv ആണ് അതായത് കോമയാൽ വേർതിരിച്ച ഒരു വാല്യൂ ഫയൽ ഒരു ഡോട്ട് csv ഫയലിൽ നിന്നുള്ള ഡാറ്റ വായിക്കാൻ R ൽ നമ്മൾ read csv ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു csv ഫംഗ്ഷൻ ഇൻപുട്ട് ആർഗ്യുമെന്റായി എന്താണ് എടുക്കുന്നതെന്നും അത് നമുക്ക് ഔട്ട്പുട്ടായി നൽകുന്നതെന്താണെന്നും നോക്കാം csv ടേബിൾ ഫോർമാറ്റിൽ ഒരു ഫയൽ വായിക്കുകയും അതിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം സൃഷ്ടിക്കുകയും ചെയ്യുന്നു csv യുടെ വാക്യഘടന ഇപ്രകാരമാണ് റീഡ് ഡോട്ട് csv രണ്ട് ആർഗ്യുമെന്റുകൾ എടുക്കുന്നു ആദ്യത്തെ ആർഗ്യുമെന്റ് ഒരു ഫയൽ നെയിമും രണ്ടാമത്തെ ആർഗ്യുമെന്റ് റോ നെയിമുമാണ് ഈ വ്യക്തിഗത ആർഗ്യുമെന്റ് എന്തിനെക്കുറിച്ചാണെന്ന് നമുക്ക് കാണാം ഡാറ്റ വായിക്കേണ്ട ഫയലിന്റെ പേരാണ് ഫയൽ റോ നെയിമുകൾ റോ നെയിമുകളുടെ വെക്റ്ററുകളാണ് പട്ടികയുടെ ഏത് കോളത്തിലാണ് റോ നെയിമുകൾ അടങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു സംഖ്യ യഥാർത്ഥ റോ നെയിമുകൾക്ക് നൽകുന്ന ഒരു വെക്റ്റർ ആകാം ഇത് അതിനാൽ പ്രധാനമായും വാക്യഘടന ഫയൽനാമമായ csv ആണ് കൂടാതെ നിങ്ങൾക്ക് റോ നെയിമുകൾ നൽകുന്ന ഒരു കോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യേക കോളത്തിൽ റോ നെയിമുകൾ നൽകാം ഈ സാഹചര്യത്തിൽ റോ സൂചികകളായി നമുക്ക് ആദ്യ നിരയുണ്ട് അതിനാലാണ് ഞങ്ങൾ ഈ row names 1 ആയി നൽകിയിരിക്കുന്നത് trip details csv ൽ നിന്നുള്ള ഡാറ്റ എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം csv ൽ നിന്നുള്ള ഡാറ്റ ഇവിടെ താഴെ പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ വായിക്കാൻ കഴിയും csv കമാൻഡ് ഉപയോഗിക്കുന്നു ഒപ്പം tripdetails csv ൽ നിന്നുള്ള ഡാറ്റ വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നു csv ഫയലിന്റെ ആദ്യ കോളത്തിൽ റോയുടെ പേരുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അതിനാൽ ഞാൻ row names ഒന്നായി വ്യക്തമാക്കിയിട്ടുണ്ട് ഡാറ്റ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഫയൽ നെയിം ഇതാണ് കൂടാതെ ഈ read csv ൽ നിന്ന് വായിച്ച ഡാറ്റ ട്രിപ്പ് ഡീറ്റെയിൽസ് എന്ന ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നു csv ന്റെ സഹായത്തോടെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ ടാബുലാർ ഫോർമാറ്റിൽ നിന്ന് ഡാറ്റ വായിക്കുകയും ഡാറ്റാ ഫ്രെയിമിന്റെ ടൈപ്പ് ഒബ്ജക്റ്റ് കോൾ ട്രിപ്പ് ഡീറ്റൈൽസിലേക്ക് അത് അസൈൻ ചെയ്യുകയും ചെയ്യുന്നു ഈ ഡാറ്റ നിങ്ങളുടെ R പരിതസ്ഥിതിയിൽ ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡാറ്റ ഫ്രെയിം കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഇത് ക്യാപിറ്റൽ V ആണ് നിങ്ങൾ ഈ കമാൻഡ് പ്രവർത്തിപ്പിച്ചുകഴിഞ്ഞാൽ അത് നിങ്ങളുടെ എഡിറ്റർ വിൻഡോയിൽ ഒരു ടാബുലാർ കോളം പോപ്പ് അപ്പ് ചെയ്യും അത് ഡാറ്റ ഫ്രെയിമിലെ വേരിയബിളുകളും ഡാറ്റ ഫ്രെയിമിലെ എൻട്രികളുടെ എണ്ണവും കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് 7 വേരിയബിളുകളും ഏകദേശം 91 എൻട്രികളും ഉണ്ട് നിങ്ങളുടെ വർക്ക്സ്പെയ്സിലേക്ക് ഡാറ്റ ഫ്രെയിം ലോഡ് ചെയ്താൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതിനാൽ ഇത് വളരെ വ്യക്തമാക്കാം ഞങ്ങൾക്ക് ഈ 7 വേരിയബിളുകൾ ഉണ്ട് ഈ ഡാറ്റ ഫ്രെയിമിൽ 91 നിരീക്ഷണങ്ങളുണ്ട് കൂടാതെ 7 വേരിയബിളുകൾ ട്രിപ്പ് നീളം പരമാവധി വേഗത ഏറ്റവും പതിവ് വേഗത യാത്രയുടെ ദൈർഘ്യം ബ്രേക്കുകൾ നിഷ്ക്രിയ സമയം ഹോണിംഗ് എന്നിവയാണ് ഇവ ഓരോ യാത്രയിലും ശ്രദ്ധിക്കപ്പെടുന്നു ഇപ്പോൾ ഒരു ഡാറ്റ ഫ്രെയിം എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു ഡാറ്റ ഫ്രെയിമിൽ ലഭ്യമായ ഓരോ വേരിയബിളിന്റെയും ഡാറ്റ ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് കാണേണ്ട സമയമാണിത് അതിനു ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗം എന്താണ് അത് ചെയ്യുന്നതിന് ഒരാൾ സ്ട്രക്ച്ചർ ഫങ്ക്ഷൻ ഉപയോഗിക്കേണ്ടതുണ്ട് സ്ട്രക്ച്ചർ ഫങ്ക്ഷൻ ഒരു R ഒബ്ജക്റ്റിന്റെ ആന്തരിക ഘടന ഒതുക്കമുള്ള രീതിയിൽ പ്രദർശിപ്പിക്കുന്നു സ്ട്രക്ചർ ഫംഗ്ഷന്റെ വാക്യഘടന ഇനിപ്പറയുന്നതാണ്സ്ട്രക്ച്ചറും ആർഗ്യുമെന്റും ഒരു ആർ ഒബ്ജക്റ്റ് സ്ഥാപിക്കുന്നു ഈ ഒബ്ജക്റ്റ് നിങ്ങൾ ചില വിവരങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ചില R ഒബ്ജക്റ്റാണ് ഇനി trip details csv ൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത ഡാറ്റ ഫ്രെയിമിന്റെ ഘടന നോക്കാം csv യിൽ നിന്ന് ഞങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്ത ഡാറ്റാ ഫ്രെയിം ട്രിപ്പ് ഡീറ്റെയിൽസ് ആണ് ഈ സ്ട്രക്ച്ചർ ഫങ്ക്ഷനിലേക്കുള്ള ഒരു വാദമായി ഞാൻ ആ ഡാറ്റ ഫ്രെയിം കൈമാറുകയാണ് ഞാൻ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ട്രിപ്പ് വിശദാംശങ്ങൾ 7 വേരിയബിളുകളുടെ 91 നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റ ഫ്രെയിമാണെന്നും 7 വേരിയബിളുകൾ ട്രിപ്പ് ദൈർഘ്യം പരമാവധി വേഗത ഏറ്റവും പതിവ് വേഗത തുടങ്ങിയവയാണെന്നും ഇത് കാണിക്കും അതനുസരിച്ച് ഈ വേരിയബിളുകളുടെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ഇത് നൽകുന്നു നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ അവയെല്ലാം ഇന്റിജർ ടൈപ്പ് ഡാറ്റ വേരിയബിളുകളാണ് ഇത് മനസ്സിൽ വയ്ക്കുക കാരണം ഡാറ്റ മാട്രിക്സിലെ എല്ലാ വേരിയബിളുകളും ന്യൂമെറിക് വേരിയബിളുകൾ അല്ലെങ്കിൽ ഇന്റഗർ വേരിയബിളുകൾ ആയിറിക്കാൻ K means ആഗ്രഹിക്കുന്നു നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കെ മീൻസ് ഫംഗ്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അത് കാണാം ഇപ്പോൾ ഒബ്ജക്റ്റിലുള്ള ഒബ്ജക്റ്റിന്റെയും വേരിയബിളുകളുടെയും ടൈപ്പും അവയുടെ ഡാറ്റ ടൈപ്പും സ്ട്രക്ച്ചർ നിങ്ങൾക്ക് നൽകുന്നു സംഖ്യാ വേരിയബിളുകളുടെ ഫൈവ് പോയിന്റ് സമ്മറി നൽകുന്ന സമ്മറി എന്ന മറ്റൊരു കമാൻഡ് ഉണ്ട് ഇതാണ് ഫംഗ്ഷൻ സമ്മറി വിവിധ മോഡലുകളുടെ ഫലങ്ങളുടെ സമ്മറികളും സംഖ്യാ R ഒബ്ജക്റ്റുകളുടെ ഫൈവ് പോയിന്റ് സമ്മറികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതു ഫംഗ്ഷനാണ് സമ്മറി ഫങ്ക്ഷൻ സമ്മറി ഫങ്ക്ഷനുള്ള വാക്യഘടന ഇപ്രകാരമാണ് സമ്മറി ഫങ്ക്ഷൻ R ഒബ്ജക്റ്റായ ഒരു ആർഗ്യുമെന്റ് എടുക്കുന്നു ഈ ഒബ്ജക്റ്റ് വീണ്ടും നിങ്ങൾക്ക് ചില വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ള ഏതെങ്കിലും R ഒബ്ജക്റ്റാണ് നമുക്ക് ഇപ്പോൾ ട്രിപ്പ് ഡീറ്റെയിൽസ് എന്ന ഡേറ്റ ഫ്രെയിമിന്റെ സമ്മറി നോക്കാം നിങ്ങളുടെ ഡാറ്റ ഫ്രെയിം ട്രിപ്പ് ഡീറ്റൈൽസിൽ സമ്മറി കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഫ്രെയിമിലെ എല്ലാ 7 വേരിയബിളുകൾക്കും ഇത് ഫൈവ് പോയിന്റ് സമ്മറി നൽകും ഇപ്പോൾ ഡാറ്റ ഫ്രെയിമിൽ കെ മീൻസ് ക്ലസ്റ്ററിംഗ് നടപ്പിലാക്കുന്നതിനുള്ള നമ്മളുടെ പ്രൈമറി ടാസ്ക് നോക്കാം അതിനാൽ ട്രിപ്പ് വിശദാംശങ്ങളുടെ ഈ ഡാറ്റാ സെറ്റ് നമ്മൾക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ട്രിപ്പുകളെ ക്ലസ്റ്ററുകളായി വേർതിരിക്കുകയും വേണം കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം വഴി നമ്മൾ ഉത്തരം തേടുകയാണ് ഡാറ്റയിൽ നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ട്രിപ്പുകൾ ഷോർട്ട് ട്രിപ്പുകൾ ലോങ്ങ് ട്രിപ്പുകൾ എന്നിങ്ങനെ ലേബൽ ചെയ്തിട്ടില്ല ഇതിനർത്ഥം ഞങ്ങളുടെ പക്കലുള്ള ഡാറ്റ ലേബൽ ചെയ്യപ്പെടാത്തതാണ് കൂടാതെ ഈ ലേബൽ ചെയ്യാത്ത ഡാറ്റയിൽ നിന്ന് ഒരാൾ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സൂപ്പർവൈസ്ഡ് അല്ലാത്ത ലേണിങ് ടെക്ക്നിക്കിലേക്ക് പോകണം Kmeans അത്തരത്തിലുള്ള ഒരു സൂപ്പർവൈസ്ഡ് അല്ലാത്ത ഒരു ലേണിങ് ടെക്ക്നിക് ആണ് ഈ K മീൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് R ൽ K മീൻസ് ക്ലസ്റ്ററിംഗ് നടപ്പിലാക്കാൻ കഴിയും ഈ K മീൻസ് ഫംഗ്ഷൻ ഇൻപുട്ട് ആർഗ്യുമെന്റുകളായി എന്താണ് എടുക്കുന്നതെന്നും അത് എന്താണ് നൽകുന്നതെന്നും നോക്കാം K മീൻസ് നിരവധി ഇൻപുട്ട് ആർഗ്യുമെന്റുകൾ എടുക്കുന്നു ഞാൻ ഇവിടെ ചില പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകൾ നൽകിയിട്ടുണ്ട് x എന്നത് ഡാറ്റയുടെ സംഖ്യാ മാട്രിക്സ് അല്ലെങ്കിൽ ഒരു മാട്രിക്സിലേക്ക് നിർബന്ധിതമാക്കാവുന്ന ഒബ്ജക്റ്റുകളെ സൂചിപ്പിക്കുന്നു ഈ കേന്ദ്രങ്ങളിൽ ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ക്ലസ്റ്ററുകളുടെ എണ്ണം നമുക്ക് നൽകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം പ്രാരംഭ ക്ലസ്റ്റർ കേന്ദ്രങ്ങൾ നൽകാം അതിനാൽ നിങ്ങൾ ഈ k ഒരു സംഖ്യയായി വ്യക്തമാക്കിയാൽ നമുക്ക് 3 ക്ലസ്റ്ററുകൾ എന്ന് പറയാം അത് ചെയ്യുന്നത് nstart ആണ് വിത്യസ്ത ക്ലസ്റ്ററുകളുടെ എത്ര സെറ്റ് മോഡലിൽ ഉപയോഗിക്കുന്നു എന്ന് ഇത് പറയുന്നു സംഖ്യാ മാട്രിക്സ് x ലെ ഒരു ക്രമരഹിതമായ വരികൾ പ്രാരംഭ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കെ മീൻസ് ഒരു ആവർത്തന അൽഗോരിതം ആണ് ഈ inter max ആർഗ്യുമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പരമാവധി ആവർത്തന പരിധി സജ്ജീകരിക്കാം K means ക്ലസ്റ്ററിംഗ് അൽഗോരിതം പ്രാരംഭ ക്ലസ്റ്റർ കേന്ദ്രങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ nstart എന്ന ഓപ്ഷൻ നിങ്ങളെ മോഡൽ കൊണ്ടുവരാൻ എത്ര സെറ്റ് വ്യത്യസ്ത ക്ലസ്റ്റർ സെന്ററുകൾ ഉപയോഗിക്കണമെന്ന് വ്യക്തമാക്കാൻ സഹായിക്കും അവസാനമായി ഔട്ട്പുട്ട് ആർഗ്യുമെന്റ് എന്നത് ഒരു R ഒബ്ജക്റ്റ് തിരികെ നൽകുന്ന ഒരു ഒബ്ജക്റ്റാണ് അത് K മീൻസ് ക്ലാസ് ആണ് അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ അത് നമുക്ക് ഇവിടെ ഉള്ളത് തന്നെയാണ് നിങ്ങൾ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഡാറ്റ മാട്രിക്സ് എടുക്കും ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ക്ലസ്റ്ററുകൾ എടുക്കും കൂടാതെ നിങ്ങൾക്ക് ഒരു കെ മീൻസ് R ഒബ്ജക്റ്റ് തിരികെ നൽകും നമുക്ക് ഇപ്പോൾ ഈ കെ മീൻസ് അൽഗോരിതം നമ്മുടെ ഡാറ്റയിൽ നടപ്പിലാക്കാം ഇതാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് K means ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ഡാറ്റ ക്ലസ്റ്റർ ചെയ്യുന്നു കൂടാതെ ഈ Kmeans ഒരു ഔട്ട്പുട്ടായി നൽകുന്ന വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ കമാൻഡ് ഈ ഡാറ്റ ഫ്രെയിം ട്രിപ്പ് ഡീറ്റെയിൽസ് എടുക്കുന്നു ഇവിടെ ഈ ആർഗ്യുമെന്റ് ഞാൻ ഡാറ്റയെ 3 ക്ലസ്റ്ററുകളായി വിഭജിക്കണമെന്ന് വ്യക്തമാക്കുന്നു ഞാൻ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഡാറ്റയെ 3 ക്ലസ്റ്ററുകളായി വിഭജിക്കുകയും ഫലത്തെ ഒരു ട്രിപ്പ് ക്ലസ്റ്റർ R ഒബ്ജക്റ്റായി നൽകുകയും ചെയ്യും അത് അടിസ്ഥാനപരമായി ഒരു ലിസ്റ്റ് ആണ് ഈ ട്രിപ്പ് ക്ലസ്റ്ററിന് എന്തെല്ലാം വിവരങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം ട്രിപ്പ് ക്ലസ്റ്ററിന് ഇനിപ്പറയുന്ന വിവരങ്ങളുണ്ട് 46 16 30 വലുപ്പത്തിലുള്ള 3 ക്ലസ്റ്ററുകളായി ഡാറ്റ ക്ലസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നത് ആദ്യ റോ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ ഇത് സമ്മറി ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ ഫ്രെയിമിലെ മൊത്തം വരികളുടെ എണ്ണം 91 ആയി നിങ്ങൾക്ക് ലഭിക്കും അത് വെരിഫൈ ചെയ്യുക ഓരോ വേരിയബിളിനും ഇത് ക്ലസ്റ്ററുകളുടെ മാർഗങ്ങൾ നൽകും അതിനാൽ നിങ്ങൾ മുഴുവൻ ഡാറ്റയും 3 ക്ലസ്റ്ററുകളായി വിഭജിക്കാൻ ആഗ്രഹിച്ചതിനാൽ ആദ്യ വരി ക്ലസ്റ്റർ വൺ വിവരമാണ് അവിടെ ട്രിപ്പിന്റെ ദൈർഘ്യത്തിന്റെ ശരാശരി 19 9 ആണ് പരമാവധി വേഗതയുടെ ശരാശരി 48 21 ആണ് അതുപോലെ 2 3 വരികൾ ക്ലസ്റ്ററിനെക്കുറിച്ചുള്ള വിവരങ്ങളെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഈ ക്ലസ്റ്ററിൽ നിന്ന് ഒരാൾക്ക് എന്താണ് മനസിലാകുന്നത് ഉദാഹരണത്തിന് ട്രിപ്പിന്റെ ശരാശരി ദൈർഘ്യം 19 9 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഏറ്റവും ചെറിയ ട്രിപ്പിനുള്ളതാണെന്ന് എനിക്ക് പറയാം ശരാശരി യാത്രാ ദൈർഘ്യം 174 ആണെങ്കിൽ എനിക്ക് ഇതൊരു ലോങ്ങ് ട്രിപ്പായി കണക്കാക്കാം അതിനാൽ ഈ അനാലിസിസ് നടത്താനുംനേരിടുന്ന പ്രോബ്ളത്തിനു അനുസരിച്ച് ഈ ക്ലസ്റ്ററുകളെ അർത്ഥവത്തായ വിവരങ്ങളാക്കി മാറ്റാനും ആഗ്രഹിക്കുന്ന ആളുകളെ ഈ വിവരങ്ങൾ തീർച്ചയായും സഹായിക്കും ട്രിപ്പ് ക്ലസ്റ്ററിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളുടെ അടുത്ത മീൻസ് എന്നത് 91 വരികൾക്കിടയിൽ ഓരോ വരിയും എന്താണെന്ന് അത് പറയും എന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ നോക്കുക അതായത് ആദ്യ വരി ക്ലസ്റ്റർ 2 ലും രണ്ടാമത്തെ ഘടകം ക്ലസ്റ്റർ 3 ന്റേതും മൊത്തം മാർഗങ്ങൾ ക്ലസ്റ്റർ 2 ന്റേതാണ് അങ്ങനെ ഓരോ വരിയും ഈ ക്ലസ്റ്ററുകളിലൊന്നായി തിരിച്ചറിയും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ K means എന്നത് ഒരു ഹാർഡ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം ആണ് അതിനർത്ഥം ഓരോ പോയിന്റും ഏതെങ്കിലും ക്ലസ്റ്ററുകൾക്ക് അനുവദിക്കണം എന്നതാണ് രണ്ട് ക്ലസ്റ്ററുകളിലും സമാനമായ ഡാറ്റ പോയിന്റുകൾ ഇതിൽ അടങ്ങിയിട്ടില്ല അല്ലാത്തപക്ഷം നിങ്ങൾക്ക് 2 ക്ലസ്റ്ററുകളിൽ ഉൾപ്പെടുന്ന ഒരു ഡാറ്റ പോയിന്റ് ഉണ്ടാകില്ല ഈ ട്രിപ്പ് ക്ലസ്റ്ററിന് ചില കൂടുതൽ വിവരങ്ങൾ ഉണ്ട് അത് within clusters sum of squares എന്നറിയപ്പെടുന്നു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിനർത്ഥം ഓരോ ക്ലസ്റ്ററുകളിലെയും വ്യതിയാനം എത്രയാണ് ഈ സ്ക്വയറുകൾക്കുള്ളിലെ ക്ലസ്റ്റർ തുക ഉപയോഗിക്കുന്നത് എങ്ങിനെയാണ് എന്നതാണ് വ്യതിയാനം കുറവായാൽ ക്ലസ്റ്ററുകൾ നല്ലതാണ് കൂടാതെ ട്രിപ്പ് ക്ലസ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റ് ഘടകങ്ങൾ ഏതൊക്കെയാണെന്നത് ഇത് നൽകും അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു കെ മീൻസ് അൽഗോരിതം നിർമ്മിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇനിപ്പറയുന്ന വിവരങ്ങൾ നൽകും ഇത് എത്ര ക്ലസ്റ്ററുകൾ നിർമ്മിച്ചു ഈ ഓരോ ക്ലസ്റ്ററുകളിലും എത്ര ഡാറ്റ പോയിന്റുകൾ ഉണ്ട് ഈ ഓരോ ക്ലസ്റ്ററുകളുടെയും മാർഗങ്ങൾ എന്തൊക്കെയാണ് ഓരോ പോയിന്റും നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന 3 ക്ലസ്റ്ററുകളിൽ 1 ആയി എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു മറ്റ് വിവരങ്ങൾ എന്നിവ നൽകും അതിനാൽ ഈ കെ മീൻസ് അൽഗോരിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എത്ര ക്ലസ്റ്ററുകൾ നൽകണമെന്ന് കണ്ടെത്തുക എന്നതാണ് അതിനാൽ K എന്ന ക്ലസ്റ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്ന എൽബോ മെത്തേഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് K മീൻസ് അൽഗരിതങ്ങൾ ചെയ്യുന്ന ലൂപ്പിനായി ഒന്ന് എന്ന് എഴുതുക എന്നതാണ് കൂടാതെ സ്ക്വയറുകളുടെ ആകെത്തുകയ്ക്കുള്ളിലെ മെട്രിക് നേടുക നിങ്ങൾ ഇത് ക്ലസ്റ്ററുകളുടെ എണ്ണം ഉപയോഗിച്ച് സ്ക്വയറുകളുടെ ആകെത്തുകയിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത എണ്ണം ക്ലസ്റ്ററുകൾക്ക് ശേഷം സ്ക്വയറുകളുടെ ആകെത്തുകയ്ക്കുള്ളിലെ കുറവ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങളുടെ ഡാറ്റ വിഭജിക്കേണ്ട ഒപ്റ്റിമൽ ക്ലസ്റ്ററുകളുടെ എണ്ണം ഇതാണ് എന്ന് പറയുക നമുക്ക് ഈ കോഡ് ലൈൻ ബൈ ലൈൻ ആയി ചിത്രീകരിക്കാം ഞാൻ k max ന് പത്തിന്റെ മൂല്യം നൽകുകയും ഒരു മെമ്മറി മുൻകൂട്ടി അനുവദിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത്രയധികം ക്ലസ്റ്ററുകൾ അവിടെയുണ്ട് കൂടാതെ ഞാൻ NA കൾ ഇത്രയും തവണ ആവർത്തിക്കുന്നു ഇത് സ്ക്വയർ മൂല്യത്തിന്റെ ആകെത്തുകയാണ് അടിസ്ഥാനപരമായി ഞാൻ NA കൾക്കൊപ്പം 10 ന്റെ 1 വലുപ്പമുള്ള ഒരു വെക്റ്റർ സൃഷ്ടിക്കുകയാണ് കൂടാതെ ക്ലസ്റ്ററുകളുടെ എന്നതിന്റെ ഒരു ഒഴിഞ്ഞ ലിസ്റ്റും ഞാൻ ആരംഭിക്കുന്നു ഇത് ലൂപ്പ് 1 മുതൽ പരമാവധി ക്ലസ്റ്ററുകൾ വരെ പ്രവർത്തിക്കും അതായത് ഈ സാഹചര്യത്തിൽ അത് 10 ആണ് കൂടാതെ i യുടെ ഓരോ മൂല്യത്തിനും ഈ കെ മീൻസ് അൽഗോരിതം നടപ്പിലാക്കുന്നു ഒബ്ജക്റ്റുകൾ ഈ ഡ്രൈവ് ക്ലാസുകളിലും ക്ലാസുകളിലും സംഭരിക്കുന്നു ഈ ഡ്രൈവ് ക്ളാസ്സുകളിൽ സ്ക്വയറുകളുടെ ആകെത്തുകയ്ക്കുള്ളിലെ മൊത്തം ദൂരം i യുടെ ഈ wss ലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു ഇത് നിങ്ങൾ സൃഷ്ടിച്ച ലിസ്റ്റിന്റെ ഘടകങ്ങളിലേക്ക് ക്ലസ്റ്ററിന്റെ വലുപ്പം അലോക്കേറ്റ് ചെയ്യുന്നു അതിനാൽ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകഴിഞ്ഞാൽ ആ ഏററുകളുടെ ആകെത്തുകയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു വെക്റ്ററും ക്ലസ്റ്ററുകളുടെ എണ്ണത്തിന്റെ ലിസ്റ്റും ലഭിക്കും ഇപ്പോൾ x അക്ഷത്തിൽ നിരവധി ക്ലസ്റ്ററുകൾ ഉപയോഗിച്ച് y അക്ഷത്തിലെ സ്ക്വയറുകളുടെ ആകെത്തുകയെയും ടൈപ്പ് b എന്നത് രേഖയെയും പോയിന്റിനെയും പ്രതിനിധീകരിക്കുന്നുവെന്നും pch 19 ഉപയോഗിക്കേണ്ട ചിഹ്നം വ്യക്തമാക്കുമെന്നും നമുക്ക് പ്ലോട്ട് ചെയ്യാം പ്ലോട്ടും x ലാബും y ലാബും ചേർന്ന് അവയുടെ സാധാരണ അർത്ഥം x ലേബലും അവ y ലേബലും ആണ് എന്നാണ് നമുക്ക് പ്ലോട്ട് നോക്കാം അതിനാൽ 0 മുതൽ 10 വരെ വ്യത്യാസമുള്ള നിരവധി ക്ലസ്റ്ററുകളായ x അക്ഷം ആണിത് കാരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്ലസ്റ്ററുകളുടെ പരമാവധി എണ്ണം 0 മുതൽ 10 വരെയാണ് കൂടാതെ നിങ്ങളുടെ ട്രിപ്പുകൾ സംബന്ധിച്ച സ്ക്വയർ മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ഈ y അക്ഷം ഒന്ന് 1 ആം ക്ലസ്റ്ററിൽ നിന്ന് 2 ആം ക്ലസ്റ്ററുകളിലേക്കും 2 ആം ക്ലസ്റ്ററുകളിൽ നിന്ന് 3 ആംക്ലസ്റ്ററുകളിലേക്കും മാറിയപ്പോൾ സ്ക്വയർ മൂല്യത്തിന്റെ ആകെത്തുകയിലെ ഈ ആകെത്തുക ഗണ്യമായി കുറഞ്ഞുവെന്ന് കാണുക അതിനുശേഷം സ്ക്വയർ ക്ലസ്റ്ററുകളുടെ ആകെത്തുകയിൽ മൊത്തത്തിലുള്ള കുറവ് മുമ്പത്തേതിനെ അപേക്ഷിച്ച് വളരെ കുറവല്ല അതുകൊണ്ടാണ് ഈ K 3 എനിക്ക് എന്റെ ഒപ്റ്റിമൽ ക്ലസ്റ്ററുകളായി തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ചുരുക്കത്തിൽ കെ മീൻസ് അൽഗോരിതം ഒരു സൂപ്പർവൈസ്ഡ് അല്ലാത്ത ലേണിങ് അൽഗോരിതം ആണെന്ന് നമ്മൾ കണ്ടു അതായത് ലേബൽ ചെയ്യാത്ത ഡാറ്റ നമ്മുടെ പക്കലുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ സൂപ്പർവൈസ്ഡ് അല്ലാത്ത ലേണിങ് അൽഗോരിതം ഉപയോഗിക്കണം നമ്മൾ K മീൻസ് അൽഗോരിതം ഉപയോഗിച്ചു R ൽ ഈ K മീൻസ് അൽഗോരിതം എങ്ങനെ നടപ്പിലാക്കാമെന്നും നമ്മൾ കണ്ടു കൂടാതെ K മീൻസിനെ ഒപ്റ്റിമൽ നമ്പർ കണ്ടെത്തുന്നതിനുള്ള ഒരു രീതിയായ എൽബോ മെത്തേഡും നമ്മൾ കണ്ടു